സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നെ കുറിച്ചുള്ള ഈ ലെക്ച്ചറിലേക്കു സ്വാഗതം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടൂൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ കോഴ്സിൽ മൈക്രോവേവ് എഞ്ചിനീറിന്റെ 3 ടൂൾ കൊണ്ടുവരുമെന്ന് ആദ്യത്തേത് സ്മിത്ത് ചാർട്ട് പിന്നെ രണ്ടാമത്തേത് സ്കേറ്ററിങ് പാരാമീറ്റർ മൂന്നാമത്തേതാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഇനി സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്നത് എന്താണ് നമ്മളിൽ പലരും അത് ഉപയോഗിച്ചിട്ടുണ്ട് കണ്ട്രോൾ തിയറിയിൽ അത് നാം ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾക്കു പല ബ്ലോക്ക് ഡയഗ്രം ഉണ്ട് അതിൽ പല ബ്ലോക്കുകൾ ഉണ്ട് അവ തമ്മിൽ ബന്ധങ്ങളുമുണ്ട് അപ്പോൾ ആകെ ഉള്ള ട്രാൻസ്ഫർ ഫങ്ക്ഷൻ ആണ് നമുക്ക് വേണ്ടത് ഇത് ഒരു ലീനിയർ നെറ്റ്വർക്ക് ആണ് ഇവിടെ പല ബ്രാഞ്ചുകൾ ഉണ്ട് പിന്നെ ഇവ തമ്മിൽ പരസ്പര ബന്ധമുണ്ട് അപ്പോൾ ആകെ ഉള്ള ട്രാൻസ്ഫർ ഫങ്ക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനാകും അത് തന്നെ ആണ് ഇവിടെയും നമുക്കറിയാം നെറ്റ്വർക്കിന്റെ പല ഭാഗത്തു കൂടി വേവ് പ്രൊപഗേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഉള്ള ട്രാൻസ്ഫർ ഫങ്ക്ഷൻ കണ്ടു പിടിക്കാനായി നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഉപയോഗിക്കാനാകും നമ്മുടെ കേസിൽ ഒരു നെറ്റ്വർക്ക് വളരെ സങ്കീർണമാകുകയാണെങ്കിൽ അതായത് നെറ്റ്വർക്ക് അനലൈസർ എന്നതിന്റെ കാലിബ്രേഷൻ പോലെ അവിടെ നെറ്റ്വർക്ക് എന്നത് വളരെ സങ്കീർണമാണ് അപ്പോൾ നമുക്ക് ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് അറിയാമായിരുന്നെങ്കിൽ ഇത് എളുപ്പത്തിൽ കണ്ടെത്താനായേനെ അതുപോലെ പല മൈക്രോവേവ് വിശേഷണങ്ങൾക്കും ഉദാഹരണത്തിന് അപ്ലിഫൈർ പല ഗൈൻ നിർവ്വചനങ്ങൾ ഉണ്ട് ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നാം ഉപയോഗിച്ചില്ല എങ്കിൽ ഇത് ചിലപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നാൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വളരെ എളുപ്പമാണ് അത് ഈ കേസിൽ സഹായകരമാണ് അത് ഗൈൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫങ്ക്ഷൻ കണ്ടുപിടിക്കാൻ ആണ് ഉപയോഗിക്കുക പക്ഷെ സ്മിത്ത് ചാർട്ട് അല്ലെങ്കിൽ സ്കേറ്ററിങ് പാരാമീറ്റർ ഉപയോഗിച്ചപ്പോൾ നാം കണ്ടു അതിനായി അതിന്റെ നിയമങ്ങൾ പഠിക്കേണ്ടതാണ് എന്തെന്നാൽ ചില നിയമങ്ങൾക്കധീനമായാൽ ഇതെല്ലം തന്നെ വളരെ സുഗമമാണ് അഥവാ ഈ നിയമങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ ഇതെല്ലം വളരെ ഭീകരം ആയി തോന്നും അതുകൊണ്ടാണ് ഈ നിയമങ്ങൾ ഇവിടെ പറയുന്നത് ഇവിടെ ഒരു വേരിയബിൾ എന്നത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആകാം അവയെല്ലാം സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ നോഡ് ആയി മാറുന്നു S പരാമീറ്ററുകളും റിഫ്ലക്ഷൻ കോ എഫിഷ്യൻറുകളും ബ്രാഞ്ച് ആയി പ്രതിനിധീകരിക്കുന്നു ഈ ബ്രാഞ്ചുകൾ ഡിപെൻഡന്റ് വേരിയബിൾ ആയ നോഡിൽ പ്രവേശിക്കുന്നു എന്നാൽ ഈ ബ്രാഞ്ചുകൾക്കു ഡിപെൻഡന്റ് വേരിയബിൾ ആയ നോഡിലും അതുപോലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയ നോഡിലും പ്രവേശിക്കാനാകുന്നതാണ് എന്തെന്നാൽ ഇവിടെ വേവ് സോഴ്സ് ഉണ്ടല്ലോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നോഡ് എന്നത് ഇൻസിഡന്റ് വേവ് ആണ് ഇൻസിഡന്റ് വേവ് എന്നത് വേവ് സോഴ്സിൽ നിന്നുമാണ് വരുന്നത് അവ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് എന്നാൽ റിഫ്ലെക്ടഡ് വേവ് നെറ്റ്വർക്ക് ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഡിപെൻഡന്റ് വേരിയബിൾ നോഡ് ആണ് ഒരു നോഡിന്റെ വാല്യൂ എന്നത് അതിലേക്കു പ്രവേശിക്കുന്ന ബ്രാഞ്ചുകളുടെ ആകെ തുക ആണ് ഇവിടെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ എഴുതുന്നതിനു പകരം ഇങ്ങനെ നോക്കുക ഏതു പ്ലസ് അളവാണെങ്കിലും a ഉപയോഗിക്കുക ഇനി മൈനസ് ആണെങ്കിൽ b അപ്പോൾ ഇതാണ് നിങ്ങളുടെ പിന്നെ ഇതാണ് ഇനി ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൽ എന്നത് എങ്ങനെ വരും ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ 2 പോർട്ട് നെറ്റ്വർക്കിൽ എനിക്ക് ഉണ്ട് അതുപോലെ ഉണ്ട് പിന്നെ എനിക്ക് ഉണ്ട് അതുപോലെ ഇനി ഈ എങ്ങനെ വരും എന്നത് മൂലമാണ് എനിക്ക് കിട്ടുന്നതാണ് അത് നമുക്ക് ഇങ്ങനെ എഴുതാം അപ്പോൾ ഈ ആണ് ഇവിടുത്തെ അപ്പോൾ ഈ ൽ നിന്ന് ഈ പിന്നെ എന്നതും കിട്ടുന്നു പിന്നെ ൽ നിന്നും ഈ എനിക്ക് ലഭിക്കുന്നു ഇതാണ് ന്റെ പ്രതിനിധീകരണം അവസാന നിയമം പറഞ്ഞത് പോലെ നോഡിലെ വാല്യൂ എന്നത് അതിലേക്കു വരുന്ന ബ്രാഞ്ച് വാല്യൂകളുടെ തുക ആണ് ഇനി ബ്രാഞ്ച് വാല്യൂ ഈ ബ്രാഞ്ച് എന്നത് ആണ് അതായതു ഇൻ റ്റു പ്ലസ് ഇൻ റ്റു എന്നത് 1 ആയിരിക്കും ഇവിടെ ഈ രണ്ടെണ്ണമാണ് പ്രവേശിക്കുന്നത് അപ്പോൾ മറ്റൊരെണ്ണം പ്രവേശിക്കുമ്പോൾ മറ്റൊരു പ്ലസ് ഇവിടെ വരുന്നു അതുപോലെ രണ്ടാമത്തെ പോർട്ടിലെ ഡിപെൻഡന്റ് വേരിയബിൾ എന്നത് ആണ് അത് യഥാർത്ഥത്തിൽ ആണ് അത് നമുക്ക് ഇങ്ങനെ എഴുതാം ഇനി അവസാനമായി ഈ രണ്ടു പോർട്ടുകൾ നമുക്ക് ഒന്നിപ്പിക്കാം അതായത് പോർട്ട് 1 എനിക്ക് ഉണ്ട് അതുപോലെ പോർട്ട് 2 ൽ എനിക്ക് ആണ് ഉള്ളത് അത് നാം നന്നായി തന്നെ ചെയ്തു എന്നത് ഇവിടെ കൊടുത്തു അത് ഇവിടെ കൊടുക്കുന്നതിന് പകരം ഇവിടെ ആണ് വച്ചത് അപ്പോൾ നമുക്ക് ൽ നിന്നും ലേക്ക് പോകുന്നത് ആണ് അതുപോലെ ൽ നിന്നും ലേക്ക് പോകുന്നത് ആണ് അതുപോലെ ൽ നിന്നും ലേക്ക് പോകുന്നത് ആണ് പിന്നെ ഇവിടെ ആണ് അപ്പോൾ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് എന്നത് ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആയി പ്രതിനിധീകരിച്ചു അതോടൊപ്പം തന്നെ S പരാമീറ്ററും ഉണ്ട് അപ്പോൾ ഇതാണ് 2 പോർട്ട് പ്രതിനിധീകരണം അതായത് S പരാമീറ്റർ ചേർത്തുള്ള 2 പോർട്ട് നെറ്റ്വർക്ക് ഇവിടെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആയി പ്രതിനിധീകരിച്ചു അതുപോലെ ഒരു ജനറേറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രം കാണാനാകും നമുക്കറിയാം ആണ് ഇവിടെ ആകെ വോൾടേജ് അതാണ് ഓപ്പൺ സർക്യൂട് വോൾടേജ് അത് ആണ് ഈ എന്നത് നമുക്ക് രണ്ടു ഭാഗമായി വീണ്ടും മുറിക്കാം എന്നതിനെ എന്ന് വിളിക്കാം അതുപോലെ എന്നതിനെ എന്നും അത് വീണ്ടും എഴുതിയിരിക്കുന്നു സോൾവ് ചെയ്യുമ്പോൾ ഈ ജനറേറ്റർ ഇങ്ങനെ ആണ് ഇവിടെ ഒരു ഉണ്ട് അതിൽ നിന്നും ആണ് പിന്നെ എന്നിവ ലഭിക്കുക ആ വാല്യൂ അതായതു ഈ സോഴ്സിന്റെ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നത് ആണ് അതുപോലെ ലോഡ് ഇമ്പിഡെൻസിന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഇവിടെ ഒരു ഇൻസിഡന്റ് വേവ് അതുപോലെ ഒരു റിഫ്ലെക്ടഡ് വേവ് എന്നിവ ഉണ്ട് അപ്പോൾ അവ തമ്മിലുള്ള ബന്ധം ആണ് ലോഡ് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ഇനി 2 പോർട്ട് നെറ്റ്വർക്ക് ലോഡ് ചെയ്തിരിക്കുന്നു അതിനെ ജനറേറ്റഡ് 2 പോർട്ട് നെറ്റ്വർക്ക് അല്ലെങ്കിൽ സോഴ്സ് 2 പോർട്ട് നെറ്റ്വർക്ക് എന്നും പറയാം എന്താണ് ഇവിടെ നിങ്ങൾക്കുള്ളത് ഇവിടെ ഒരു സോഴ്സ് ഉണ്ട് ഈ നെറ്റ്വർക്കിന്റെയും സോഴ്സിന്റെയും ഇടയ്ക്കു ഇവിടെ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ഉണ്ട് അതുപോലെ ഇവിടെ ഒരു ലോഡ് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നതും ഉണ്ട് ഇതാണ് പൂർണമായ നെറ്റ്വർക്ക് എന്നാൽ ഒരു പ്രത്യേക ലോഡ് സോഴ്സ് എന്നിവ കൊടുത്തും നമ്മൾ S പാരാമീറ്റർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട് ആ സമയം ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കുക ഇനി ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ കുറച്ചു പദാവലി നോക്കാനുണ്ട് അതിൽ ആദ്യത്തേത് ഫസ്റ്റ് ഓഡർ ലൂപ്പ് ആണ് അതിന്റെ സിംബൽ ആണ് ഇനി ഒരു ലൂപ്പ് എന്നാൽ എന്താണ് ലൂപ്പ് എന്നാൽ ബ്രാഞ്ചുകളുടെ ഒരു സംയോഗമാണ് അത് ഒരു നോഡിൽ നിന്നും ആരംഭിച്ചു ഒരു വട്ടം ചുറ്റൽ നടത്തി അതെ നോഡിൽ തന്നെ തിരിച്ചു വരുന്നു അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരേ നോഡിൽ തന്നെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന പാത അത് ഒരു സിംഗിൾ ബ്രാഞ്ച് ആകാം അതിനെ സെല്ഫ് ലൂപ്പ് എന്ന് വിളിക്കുന്നു പിന്നെ അത് പല ബ്രാഞ്ചുകൾ ആകാം അതിനു ശേഷം ഇത് തിരിച്ചു വരുന്നു അതാണ് ഒരു സ്റ്റാൻഡേർഡ് ആയ ലൂപ്പ് എന്നാൽ ഇത് ഫസ്റ്റ് ഓഡർ ലൂപ്പ് ആണ് അത് എന്താണ് ഏതു ലൂപിനെയും നമുക്ക് ഫസ്റ്റ് ഓഡർ ലൂപ്പ് എന്ന് വിളിക്കാം ഇനി ഇവിടെ ഒരു സെക്കന്റ് ഓർഡർ ലൂപ്പ് ഉണ്ട് ഈ സെക്കന്റ് ഓർഡർ ലൂപ്പ് എന്നത് പരസ്പരം തൊടാത്ത രണ്ടു ഫസ്റ്റ് ഓഡർ ലൂപ്പുകളുടെ പ്രോഡക്റ്റ് ആണ് എല്ലാ ലൂപ്പിനെയും പൊതുവെ നാം ഫസ്റ്റ് ഓഡർ ലൂപ്പ് എന്നാണ് വിളിക്കുക അതിൽ നിന്നും ഈ സെക്കന്റ് ഓർഡർ ലൂപ്പ് എന്നത് പരസ്പരം തൊടാത്ത ഏതെങ്കിലും രണ്ടു ഫസ്റ്റ് ഓഡർ ലൂപ്പുകളുടെ പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഏതൊക്കെ ആണ് തൊടുന്നത് പിന്നെ ഏതൊക്കെ ആണ് തൊടാത്തതു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവ തൊടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാനാകില്ല എന്നാൽ അവ പരസ്പരം തൊടുന്നില്ലെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് ഒരു സെക്കന്റ് ഓർഡർ ലൂപ്പ് ആയി എടുക്കേണ്ടതാണ് ഈ എല്ലാ ജോഡികളും നാം നോക്കേണ്ടതാണ് ഇനി നമുക്ക് ഒരു തേർഡ് ഓർഡർ ലൂപ്പ് third order loop അത് പരസ്പരം തൊടാത്ത 3 ഫസ്റ്റ് ഓഡർ ലൂപ്പുകളുടെ പ്രോഡക്റ്റ് ആണ് അത് പോലെ ഏതു ഓഡർ വേണമെങ്കിലും നിങ്ങൾക്കു പോകാനാകും അപ്പോൾ ഒരു നെറ്റ്വർക്ക് കൂടുതൽ സങ്കീർണമാകുന്നു ആദ്യം ഇവിടെ ലൂപ്പുകൾ മനസ്സിലാക്കണം അതായതു എല്ലാ ഫസ്റ്റ് ഓഡർ ലൂപ്പുകളു൦ മനസ്സിലാക്കണം അതിനു ശേഷം പരസ്പരം ബന്ധപ്പെടാത്ത ഫസ്റ്റ് ഓഡർ ലൂപ്പുകളുടെ ജോഡി ഏതൊക്കെ എന്ന് മനസ്സിലാക്കണം അവയാണ് സെക്കന്റ് ഓർഡർ ലൂപ്പ് ഇനി അതുപോലുള്ള 3 ഫസ്റ്റ് ഓഡർ ലൂപ്പുകളു൦ മനസ്സിലാക്കണം അതാണ് തേർഡ് ഓർഡർ ലൂപ്പ് ഇനി അതുപോലെ 4 ലൂപ്പുകളുടെ സംയോഗമാണെങ്കിൽ അത് ഫോർത് ഓർഡർ ലൂപ്പ് ആകും അതാണ് ഇനി നിങ്ങൾക്കു കാണാം ഇതാണ് എന്നത് ഫസ്റ്റ് ഓഡർ ലൂപ്പ് ആണ് ഇവിടെ സൂപ്പർ സ്ക്രിപ്റ്റ് P എന്നാൽ P എന്ന പാതയെ തൊടാത്ത ഫസ്റ്റ് ഓഡർ ലൂപ്പ് ആണ് ഇവിടെ നാം താൽപര്യപ്പെടുന്ന ഒരുപാട് പാതകൾ ഉണ്ടാകാം അപ്പോൾ എന്നത് P1 എന്ന പാതയെ തൊടാത്ത ഫസ്റ്റ് ഓഡർ ലൂപ്പ് ആണ് അതുപോലെ എന്നത് P 2 എന്ന പാതയെ തൊടാത്ത ഫസ്റ്റ് ഓഡർ ലൂപ്പ് ആണ് അതുപോലെ എന്നത് P എന്ന പാതയെ തൊടാത്ത സെക്കന്റ് ഓർഡർ ലൂപ്പ് ആണ് ഇതാണ് ആ ഫോർമുല ഇത് നിങ്ങൾ കണ്ട്രോൾ തിയറിയിൽ ഉപയോഗിച്ചതാണ് ഇലെക്ട്രിക്കൽ കൺട്രോളിൽ ഇത് പല തരത്തിലുള്ള ബ്ലോക്ക് ഡയഗ്രത്തിൽ ഉപയോഗിച്ചതാണ് ട്രാൻസ്ഫർ ഫങ്ക്ഷൻ കണ്ടുപിടിക്കാൻ നേരം ഇതാണ് ഉപയോഗിക്കുക ഇത് പ്രസിദ്ധമാണ് ഇതാണ് മേസൺ ഫോർമുല Mason's formula പൊതുവെ ഇതിനെ ഗൈൻ എന്നാണ് പറയുക അത് ഒരു ഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നിവ ആണ് നാം ആദ്യം പറഞ്ഞതുപോലെ ഡിപെൻഡന്റ് വേരിയബിൾ എന്നത് റിഫ്ലക്ട് ചെയ്യുന്നതാണ് പിന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നത് ഇൻസിഡന്റ് ചെയ്യുന്നതുമാണ് അപ്പോൾ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ഒരു റിഫ്ലക്ട് ബൈ ഒരു ഇൻസിഡന്റ് എന്നതാണ് അതിനെ നാം ഗൈൻ എന്നാണ് പറയുക അത് ഗൈൻ ആകാം അതുപോലെ എന്തും ആകാം അടിസ്ഥാനപരമായി അത് ഒരു ട്രാൻസ്ഫർ ഫങ്ക്ഷൻ ആണ് ഇനി അത് ഈ ഫോർമുല ഉപയോഗിച്ചാണ് എഴുതുന്നത് ഇനി അത് എന്താണ് പറയുന്നത് നിങ്ങൾ P കണ്ടെത്തുക ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വച്ച് ഡിപെൻഡന്റ് വേരിയബിളിലേക്കു നിങ്ങൾക്കു പല പാതകൾ കണ്ടുപിടിക്കാം ഉദാഹരണം പിന്നെ ഈ എന്നത് നോഡ് ആണ് പിന്നെ എന്നതും നോഡ് ആണ് ഒരു ഇൻഡിപെൻഡന്റ് നോഡ് ആണ് എന്നാൽ ഒരു ഡിപെൻഡന്റ് നോഡ് ആണ് നിങ്ങൾ ഈ ഇൻഡിപെൻഡന്റ് നോഡിൽ നിന്നും ഡിപെൻഡന്റ് നോഡിലേക്കാണ് വരേണ്ടത് അങ്ങനെ എത്ര വഴി ഉപയോഗിച്ച് നിങ്ങൾക്കു അങ്ങനെ വരാനാകും അതാണ് നിങ്ങളുടെ പാത അത് എന്നിങ്ങനെ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി എന്നത് ഏതൊക്കെ എന്നാണ് കണ്ടെത്തേണ്ടത് അതായത് എത്ര ഫസ്റ്റ് ഓഡർ ലൂപ്പുകൾ ഉണ്ട് അതായത് എത്ര സ്റ്റാൻഡേർഡ് ലൂപ്പുകൾ ഉണ്ട് ഇനി എന്നത് എല്ലാ ഫസ്റ്റ് ഓഡർ ലൂപ്പുകളുടെയും തുക ആണ് ഇനി സെക്കന്റ് ഓർഡർ ലൂപ്പ് കണ്ടു പിടിക്കുക അതോടൊപ്പം അവയുടെ തുകയും അതുപോലെ എന്നത് തേർഡ് ഓർഡർ ലൂപ്പുകളുടെ തുക ആണ് ഇനി നുമേറ്ററിൽ നിങ്ങൾക്കു ഈ പാത കാണാം ഈ പാതയ്ക്ക് ഒരു വാല്യൂ ഉണ്ട് ഈ വാല്യൂ എന്നത് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ആണ് ഈ പാതയിലെ ഓരോ ബ്രാഞ്ചിലും ഓരോ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ഉണ്ട് അതുപോലെ S പാരാമീറ്റർ അപ്പോൾ അവയുടെ പ്രോഡക്റ്റ് ആ പാതയുടെ പാത്ത് വാല്യൂ ആണ് 1 മൈനസ് എന്നത് ഈ പാത്ത് 1 ൽ തൊടാത്ത ഫസ്റ്റ് ഓഡർ ലൂപ്പുകൾ ആണ് അവയുടെ തുക അതുപോലെ പലതും ഉണ്ടാകും അതുപോലെ പാത്ത് 1 ൽ തൊടാത്ത സെക്കന്റ് ഓർഡർ ലൂപ്പ് തേർഡ് ഓർഡർ ലൂപ്പുകൾ ഫോർത് ഓർഡർ ലൂപ്പുകൾ അങ്ങനെ ഇവിടെ സൈൻ എന്നത് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എന്നിങ്ങനെ ആണ് അങ്ങനെ പാത്ത് 1 എന്നത് ക്ലോസ് ചെയ്തു അതുപോലെ തന്നെ പാത്ത് 2 ചെയ്യുക വീണ്ടും 1 മൈനസ് ഈ പിന്നെ പാത്ത് 2 തൊടാത്ത സെക്കന്റ് ഓർഡർ ലൂപ്പ് തേർഡ് ഓർഡർ ലൂപ്പുകൾ ഫോർത് ഓർഡർ ലൂപ്പുകൾ അങ്ങനെ അപ്പോൾ ഇതാണ് ന്യുമറേറ്റർ ഇതാണ് നിങ്ങൾക്കു വാല്യൂ തരിക ഇത് കിട്ടാനായി നിങ്ങൾ കുറച്ചു സമയമെടുത്തേക്കാം എന്നാൽ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നിന്നും ഡിപെൻഡന്റ് വേരിയബിളിലേക്കു ബന്ധിപ്പിക്കാൻ ഒരുപാട് വഴികൾ ഉണ്ട് എന്തെന്നാൽ ഇവിടെ പല ഇൻഡിപെൻഡന്റ് വേരിയബിൾ പിന്നെ ഡിപെൻഡന്റ് വേരിയബിൾ എന്നിവ ഉണ്ട് എല്ലാ ഡിപെൻഡന്റ് വേരിയബിളും ആയിരിക്കും അതായതു യോട് കൂടി ഒരു സബ് സ്ക്രിപ്റ്റ് അതുപോലെ എല്ലാ ഇൻഡിപെൻഡന്റ് വേരിയബിളും അതിനോടൊപ്പം ഒരു സബ് സ്ക്രിപ്റ്റ് എന്ന രീതിയിലും ആയിരിക്കും അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നിന്നും ഡിപെൻഡന്റ് വേരിയബിളിലേക്കു നിങ്ങൾ പോകുന്നു പിന്നെ പാത അത് ഒരു കോ ഡയറക്ഷണൽ ബ്രാഞ്ചുകളുടെ ഒരു സെറ്റ് ആണ് അവിടെ ഒരു നോഡ് എന്നത് ഒന്നിലധികം തവണ പോകുകയില്ല പിന്നെ അത് ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നിന്നും ഡിപെൻഡന്റ് വേരിയബിളിലേക്കു പോകുന്നു എന്നാൽ ഒരു പാത രണ്ടു പ്രാവശ്യം കടക്കാൻ പാടുള്ളതല്ല അപ്പോൾ അത് പൂർണമായും വ്യത്യസ്തമായ പാത ആയിരിക്കണം അതിനർത്ഥം ഒരു ലൂപ്പിലൂടെ ഒരു പാതയിലേക്ക് വരാനാകില്ല എന്തെന്നാൽ നിങ്ങൾ ലൂപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു നോഡിൽ കൂടി രണ്ടു തവണ സഞ്ചരിക്കുന്നു അപ്പോൾ ഈ പാതയിൽ ലൂപ്പ് ഒന്നും ഉണ്ടാകാൻ പാടില്ല പാത്ത് വാല്യൂ എന്നത് ബ്രാഞ്ച് വാല്യൂകളുടെ പ്രോഡക്റ്റ് ആണ് ഇനി നമുക്ക് ഈ ഉദാഹരണം നോക്കാം നമുക്കിനി വേണ്ടത് ആണെന്ന് കരുതുക ഇവിടെ ഇത് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അത് ആണ് എന്തെന്നാൽ ഇത് ഇൻസിഡന്റ് ആണ് അപ്പോൾ ഇവിടെ നിന്നും ഇവിടേക്കാണ് എനിക്ക് കാണേണ്ടത് എന്താണ് പാതകൾ ഒരു പാത ഇവിടെ ആണ് ഇത് ഒരു നേരായ പാത ആണ് അതിനാൽ ഇതിനെ നമുക്ക് എന്ന് വിളിക്കാം എനിക്ക് ഇവിടെയും വരാം എനിക്ക് ഇങ്ങോട്ടു പോകുകയും ചെയ്യാം ഇത് മറ്റൊരു പാതയാണ് അത് 1 ഇൻ റ്റു ഇൻ റ്റു ഇൻ റ്റു ആണ് ഇവിടെ മറ്റൊരു പാതകളും ഇല്ല ഇത് ഒരു പാതയാണ് എന്നാൽ ഇത് അങ്ങനെ അല്ല എന്തെന്നാൽ ഇവിടെ ആരോ ഇല്ല എനിക്ക് ഇങ്ങോട്ടു വരേണ്ടി ഇരിക്കുന്നു എന്തെന്നാൽ ഇത് എടുക്കാനാകില്ല ആകെ ഇത് മാത്രം അപ്പോൾ ഈ ൽ നിന്നും ലേക്ക് ആകെ ഈ രണ്ടു പാതകൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് എന്നത് എന്താണെന്നു കണ്ടെത്തണം അതായതു ഫസ്റ്റ് ഓഡർ ലൂപ്പുകൾ ഇവിടെ നിന്നും ഇവിടേയ്ക്ക് വരുമ്പോൾ ഉള്ള ലൂപ്പുകൾ ഏതൊക്കെയാണ് തീർച്ചയായും ഒരു ലൂപ്പ് ഇതാണ് നാം അതിനെ എന്ന് വിളിക്കുന്നു പിന്നെ മറ്റൊരു ലൂപ്പ് എന്നത് തീർച്ചയായും ആണ് ഇവിടെ മറ്റൊരു ലൂപ്പ് ഉണ്ട് ഞാൻ ഇവിടെ നിന്നും ആരംഭിക്കുന്നു വീണ്ടും ഇവിടെ ലൂപ്പുകൾ ഉണ്ട് അപ്പോൾ അവയാണ് ഫസ്റ്റ് ഓഡർ ലൂപ്പുകൾ അപ്പോൾ ആകെ 3 ഫസ്റ്റ് ഓഡർ ലൂപ്പുകൾ ആണ് ഉള്ളത് അപ്പോൾ ഡിനോമിനേറ്റർ കൂട്ടിയാൽ എന്ന് കാണാം അത് ഈ 3 ലൂപ്പുകളുടെ തുകയാണ് അത് എന്നത് ആയിരിക്കും ഇനി അതെ കാര്യം വീണ്ടും നോക്കുന്നു ഇനി ഇവിടെ സെക്കന്റ് ഓർഡർ ലൂപ്പ് ഉണ്ടോ അതിന്റെ അർഥം പരസ്പരം തൊടാത്ത 2 ലൂപ്പുകൾ ഉണ്ടോ ഇതൊരു ലൂപ്പ് ആണ് അത് ഈ ലൂപ്പിനെ തൊടുന്നു അപ്പോൾ ഇവ പരസ്പരം തൊടാത്ത രണ്ടു ലൂപ്പുകൾ അല്ല എന്നാൽ ഈ രണ്ടെണ്ണം അങ്ങനെ ആണ് അവ പരസ്പരം തൊടാത്തവ ആണ് അപ്പോൾ ഇവിടെ ഒരു സെക്കന്റ് ഓർഡർ ലൂപ്പ് ഉണ്ട് നമ്മൾ ഇവിടെ എഴുതുന്നതാണ് ഇവിടെ ഒരു സെക്കന്റ് ഓർഡർ ലൂപ്പ് ഉണ്ട് അതിന്റെ വാല്യൂ എന്നത് ഇവ രണ്ടിന്റെയും പ്രോഡക്റ്റ് ആണ് നാം കണ്ടു കഴിഞ്ഞു ഇവിടെ രണ്ടു വഴികൾ ഉണ്ട് ഇവിടെ 3 ആണ് ഉള്ളത് അത് നാം കണ്ടതാണ് ഇത് ഒരു പിന്നെ ഇത് മറ്റൊരു പിന്നെ ഇത് മറ്റൊരു ഇവിടെ 3 ഫസ്റ്റ് ഓഡർ ലൂപ്പുകൾ ആണ് ഉള്ളത് എന്നാൽ പാത്ത് 1 ൽ തൊടാത്ത ഏതു ലൂപ്പ് ആണ് ഉള്ളത് ഏതാണ് പാത്ത് 1 ഇതാണ് നമ്മുടെ പാത്ത് 1 നോൺ ടച്ചിങ് എന്നാൽ അവ തമ്മിൽ പൊതുവായ ഒരു നോഡ് ഇല്ല എന്നതാണ് എന്നാൽ ആദ്യ രണ്ടു ഫസ്റ്റ് ഓഡർ ലൂപ്പുകൾ എടുത്താൽ കാണാം അവയ്ക്കിടയിൽ പൊതുവായ നോഡ് ഉണ്ട് എന്നാൽ ഒരെണ്ണം ഈ പാതയുമായി നോഡുകൾ ഒന്നും ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഒരു നോൺ ടച്ചിങ് ലൂപ്പ് ആണ് അതിനാലാണ് നാം എന്ന് എഴുതുന്നത് അതുപോലെ ഈ രണ്ടാമത്തെ പാതയിൽ ഏതെങ്കിലും ഫസ്റ്റ് ഓഡർ ലൂപ്പ് നോൺ ടച്ചിങ് ആണോ ഈ രണ്ടാമത്തെ പാത ഏതാണ് അത് ഇതാണ് നിങ്ങൾക്കു കാണാം എല്ലാ ലൂപ്പുകളും ഈ പാതയെ തൊടുന്നുണ്ട് അപ്പോൾ എന്നത് 0 ആണ് ഇനി ഈ മൂന്ന് ലൂപ്പുകളിൽ പരസ്പരം തൊടാത്ത 3 ലൂപ്പുകൾ ഉണ്ടോ ഇല്ല അപ്പോൾ തേർഡ് ഓർഡർ ലൂപ്പുകൾ ഇവിടെ 0 ആണ് ഇനി നോക്കേണ്ടത് സെക്കന്റ് ഓർഡർ ലൂപ്പ് ഉണ്ടോ എന്നതാണ് എന്താണ് സെക്കന്റ് ഓർഡർ ലൂപ്പ് ഇതും ഇതും ഇത് പാത്ത് 1 ൽ തൊടുന്നില്ല എന്നാൽ ഇത് തൊടുന്നുണ്ട് അതിനാലാണ് നാം എന്നത് 0 ആക്കിയത് അതുപോലെ ഈ സെക്കന്റ് ഓർഡർ ലൂപ്പ് പാത്ത് 2 നെ തൊടുന്നുണ്ട് ഇതാണ് പാത്ത് 2 അപ്പോൾ എന്നതും 0 ആണ് ഇതിൽ തേർഡ് ഓർഡർ ലൂപ്പുകൾ ഇല്ല ഇനി നമുക്ക് ഈ മേസൺ ഗൈൻ ഫോർമുല Mason's gain formula ഇവിടെ പ്രയോഗിക്കാം എല്ലാം നാം ഇവിടെ എഴുതി വാല്യൂ എഴുതി അതുപോലെ വാല്യൂ പിന്നെ എഴുതി എല്ലാ ലൂപ്പുകളും എഴുതി 3 ഫസ്റ്റ് ഓഡർ ലൂപ്പുകൾ പിന്നെ ഒരു സെക്കന്റ് ഓർഡർ ലൂപ്പ് തേർഡ് ഓർഡർ ലൂപ്പുകൾ ഒന്നും ഇല്ല മാത്രമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഉണ്ട് ഇതാണ് ട്രാൻസ്ഫർ ഫങ്ക്ഷൻ ഇതിൽ നിന്നും കണ്ടെത്തിയാൽ ഇതാണ് വാല്യൂ ഇനി നമുക്ക് നമ്മുടെ ഒരു പോയിന്റിലേക്കു വരാം എനിക്ക് ഈ ലോഡ് ചെയ്ത സർക്യൂട്ടിന്റെ ഇൻപുട് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് കണ്ടുപിടിക്കണം എന്ന് കരുതുക ഈ ഭാഗം എന്നത് S പാരാമീറ്റർ ഭാഗമാണ് അതായതു ഇത് വരെ ഇനി ഇവിടെ ഒരു ലോഡ് ഉണ്ട് അപ്പോൾ ഇവിടെ ലോഡ് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ഉണ്ട് ഇവിടെ നിന്നും ഞാൻ നോക്കുമ്പോൾ വാല്യൂ എന്താണ് അപ്പോൾ നാം നോക്കുന്ന ഈ എന്താണ് അതിന്റെ അർഥം അത് എന്നതാണ് അപ്പോൾ ഇത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ പിന്നെ ഇത് ഡിപെൻഡന്റ് വേരിയബിൾ അപ്പോൾ ൽ നിന്നും ലേക്ക് എങ്ങനെ വരും ഒരു വഴി ഇതാണ് അതിനെ എന്ന് വിളിക്കുന്നു അത് ആണ് മറ്റൊരു വഴി ഇതാണ് എനിക്ക് ഇത് വഴി വരാം അപ്പോൾ അത് ആണ് ഇനി ഏതെങ്കിലും ലൂപ്പ് ഉണ്ടോ യെസ് ഈ ലൂപ്പ് നിങ്ങൾക്കു കാണാം മറ്റൊരു ലൂപ്പ് സാധ്യമാണ് അതിന്റെ അർഥം ഒരു ഫസ്റ്റ് ഓഡർ ലൂപ്പ് മാത്രമാണ് ഉള്ളത് തീർച്ചയായും പിന്നെ എന്നിവ 0 ആയിരിക്കും എന്നാൽ ഇത് ആണ് അതായതു ഫസ്റ്റ് ഓഡർ ലൂപ്പ് ഇത് പാത്ത് 1 മായി നോൺ ടച്ചിങ് ആണോ അപ്പോൾ എന്നത് ആണ് പാത്ത് 1 ആയി നോൺ ടച്ചിങ് ആണോ അപ്പോൾ എന്നത് 0 ആയിരിക്കും ഇനി എന്നത് ഇതായിരിക്കും

ഇനി ഈ വാല്യൂ ഇവിടെ കൊടുക്കാം ഇത് നമുക്കു നന്നായി അറിയാവുന്ന വാല്യൂ ആണ് നിങ്ങൾ നോക്കു എത്ര ലളിതമായാണ് ഈ S പാരാമീറ്റർ നിങ്ങൾക്കു ലഭിച്ചത് എന്നാൽ നമുക്ക് ലഭിച്ച കാര്യങ്ങളിൽ നമുക്ക് കുറച്ചു മാറ്റങ്ങൾ വരുത്തേണ്ടതായുണ്ട് എന്നാൽ ഇവിടെ നേരെ നമുക്ക് വാല്യൂ ലഭിച്ചു ഇനി ഈ ലോഡ് എന്നത് മാച്ച് ആണെങ്കിൽ ഈ എന്നത് 0 ആയിരിക്കും അത് മറ്റൊന്നും അല്ല ആണ് അതും നാം പറഞ്ഞ കാര്യമാണ് പൊതുവെ ഇൻപുട് പോർട്ടിന്റെ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് അല്ല എന്നാൽ രണ്ടാമത്തെ പോർട്ട് മാച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും അതുപോലെ യൂണിലാറ്ററൽ ഡിവൈസ് ആകുമ്പോൾ 2 ൽ നിന്നും 1 ലേക്ക് വഴി ഒന്നും ഇല്ല നിങ്ങൾക്കു എന്നതും കിട്ടും അടിസ്ഥാനമായി എന്നത് 0 ആണ് പിന്നെ മാച്ച് ചെയ്ത ലോഡ് എന്നത് ഈ വഴി 0 ആക്കുന്നു എന്നാൽ ചില ഉപകരണങ്ങളിൽ എന്നത് 0 ആണ് അതിലും നിങ്ങൾക്കു എന്ന് ലഭിക്കുന്നു അതുപോലെ ഔട്ട്പുട്ട് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ൽ നിന്നും ഇത് നിങ്ങൾക്കു ലഭിക്കും ആ ഔട്ട്പുട്ട് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ആണ് അതിന്റെ അർഥം ൽ നിന്നും ലേക്ക് എങ്ങനെ വരും ഇവിടെ വീണ്ടും ഒരു പാത ഇതാണ് മറ്റൊന്ന് ഇത് നിങ്ങൾക്കു പറയാം ഇത് മറ്റൊരു ലൂപ്പ് ആണ് ഈ രണ്ട് ലൂപ്പിൽ അത് ചെയ്യുക ഇതാണ് ലഭിക്കുക അതുപോലെ ഇവിടെ പല പവർ ഡെഫിനിഷൻ ഉണ്ട് നിങ്ങൾ ആംപ്ലിഫൈർ പഠിക്കുമ്പോൾ അത് ആവശ്യമാണ് അത് നമ്മൾ തീർത്തു എന്ന് ഞാൻ കരുതുന്നു അതായതു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നാം അതിന്റെ ആമുഖം കണ്ടു അത് എങ്ങനെ മാറ്റം വരുത്താം എന്ന് കണ്ടു ഇനി അടുത്ത ലെക്ച്ചറിൽ അതിന്റെ ഉപയോഗം നാം നോക്കുന്നതാണ് ചില ഉപയോഗങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏറ്റവു൦ പ്രധാനമായത് നെറ്റ്വർക്ക് അനലൈസർ ആണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വച്ച് അതിന്റെ കാലിബ്രേഷൻ എളുപ്പത്തിൽ ചെയ്യാനാകും അത് അടുത്ത ലെക്ച്ചറിൽ നാം കാണും നന്ദി